ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന്വളരെ വ്യത്യസ്തമായ ഭൂമിശാസ്ത്രം ഉള്ള തെക്കേ അമേരിക്കൻ ഭാഗത്തെ പെറു വിൽ നിന്നുള്ള ചില പാഠങ്ങൾ ആണ് നമ്മൾ നോക്കുന്നത് അതിനാൽ ഞാൻ ഇതിനെ പെറുവിൽ നിന്നുള്ള പാഠങ്ങൾ എന്ന് വിളിക്കുന്നു കൂടാതെ വിവിധ റിസോഴ്സസുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നു ഒന്ന് മൈക്കൽ ലിയോണുംതിയോ ഷിൽഡർമാനുംഒപ്പം കാമിലോ ബോയാനോയുംചേർന്ന് ബിൽഡ് ബാക്ക് ബെറ്റർ എന്നതിനെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്ത പതിപ്പാണ് ഷോർട് ടെർമ് റിക്കവറി കൊണ്ടുണ്ടാകുന്ന ലോങ്ങ് ടെർമ് പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു അധ്യായമായിരുന്നു ആദ്യ പതിപ്പ് ഇത് ഇവിടെയുണ്ട് അവർ ചെയ്തത് ആ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് പലതരം കേസുകൾ കംപൈൽ ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ആളുകൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടുവെന്നും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആളുകൾ അതിനോട് എങ്ങനെ പ്രതികരിച്ചുവെന്നും അവർ പരിശോധിച്ചു അതിനാൽ ദുരന്ത ലഘൂകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി പരമ്പരാഗത ഷെൽട്ടർ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളുമായുള്ള അനുഭവങ്ങൾ എന്നിവയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റ് ചില വിവരങ്ങളും ഉണ്ട് എല്ലാ ചർച്ചകളിലും വ്യത്യസ്ത പങ്കാളിത്ത രീതികളും വ്യത്യസ്ത സന്ദർഭങ്ങളും അതിനോടുള്ള വ്യത്യസ്ത പ്രതികരണങ്ങളും അവർ എടുത്തുകാണിക്കുന്നു അതിനാൽ ഇതാണ് മൈക്കൽ ലിയോണുംഷിൽഡർമാനും ബോനോയും കാമിലോ ബോനോഅവർ ചെയ്തത് അവർ ഏകദേശം 6 പഠന മേഖലകൾ എടുത്തു അതായത് വിവിധ സമയങ്ങളിൽ പെറുവിൽ ബാധിച്ച വ്യത്യസ്ത ഭൂകമ്പങ്ങൾ 1990 ലും 1991 ലും ഭൂകമ്പങ്ങൾ ബാധിച്ച സാൻ മാർട്ടിൻ പ്രദേശത്തെ ആൾട്ടോ മയോ നെ ക്കുറിച്ചാണ് നമ്പർ 1 പിയൂറ മൊറോപോൺ മേഖലയിലെ ആണ് നമ്പർ 2 മൊറോപോണിലെ പിയുറ മേഖലയിൽ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരു സംഭവം മാത്രമല്ല എന്നാൽ ഇത് എൽ നിനോപ്രതിഭാസം കൂടിയാണ്വരൾച്ച പോലെയുള്ള ദീർഘകാല ആഘാതം ഇവിടെയും കാണുന്നു 1999 ൽ ഉണ്ടായ അയാകുച്ചോ ഭൂകമ്പംചുസ്ചിയെയും ക്വിസ്പില്ലക്റ്റയെയും ബാധിച്ചു തുടർന്ന് നിങ്ങൾക്ക് 2001 ൽ മൊക്വെഗ്വ ഭൂകമ്പം ഉണ്ടായി തെക്ക് താഴേക്ക് അതേസമയം ഇത് 1996 ലെ ഭൂകമ്പമായ ഇക്ക പ്രദേശത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ ഇക്കാ ടിയറ പ്രൊമെറ്റിഡയിൽ അത് മാറ്റിസ്ഥാപിക്കപ്പെട്ടതാണ് അതിനാൽ ഇപ്പോൾ ഇവയിൽ സ്ഥലംമാറ്റ സന്ദർഭവും ഉണ്ട് അതിനാൽ നമുക്ക് ഓരോ കേസും നോക്കി അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് ഹ്രസ്വമായി ചർച്ച ചെയ്യാം അതിനാൽ ആദ്യത്തെ കേസിൽ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും കാരണം എല്ലാ കേസുകളിലും പല കാര്യങ്ങളും ഒരുപോലെയാണ് എന്നാൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചെറിയ വ്യത്യാസമുണ്ട് പ്രത്യേകിച്ച് അഡോബ് തരത്തിലുള്ള നിർമ്മാണത്തിൽ അതിനാൽ ഓരോ കേസും നമുക്ക് ബ്രീഫ് ആയി നോക്കാം അവസാനമായി ഞാൻ അത് സംഗ്രഹിക്കാം അതിന്റെ വിവിധ ജനറിക് ആസ്പെക്ടുകളും സ്പെസിഫിക് ആസ്പെക്ടുകളും എന്താണെന്ന് നോക്കൂ 1990 ൽ മെയ് 29 ന്നമ്മൾ സംസാരിക്കുന്ന പ്രദേശം ആയ ആൾട്ടോ മയോയിൽ6 2 റിക്റ്റർ സ്കേലിൽ ആണ് ഉണ്ടായത്ഇതിൽ 70 ഓളം പേർ കൊല്ലപ്പെടുകയും 1600 ഓളം പേർക്ക് പരിക്കേൽക്കുകയും 6000 ത്തോളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയും ചെയ്തു പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ 1991 ൽ വീണ്ടും 6 2 റിക്ടർ സ്കെയിൽ ഉണ്ടായി 40 മരണങ്ങളും 700 പേർക്ക് പരിക്കേൽക്കുകയും മൊയോബാംബയിൽ 466 വീടുകൾ നശിക്കുകയും റിയോജയിൽ 339 വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു മോയോമ്പോയിലും റിയോജയിലും സോറിറ്റോറിലുംകൂടിയാണിത് അതിനാൽ ഇത് ആൾട്ടോ മയോമേഖലയാണ് ഇത് പ്രാക്ടിക്കൽ ആക്ഷൻ ഗ്രൂപ്പുമായി ചേർന്നാണ് നടപ്പിലാക്കിയത് ഒരു പ്രാക്ടിക്കൽ ആക്ഷൻ ഗ്രൂപ്പ് പ്രധാനമായും റിക്കവറിപ്രക്രിയയിൽ പ്രവർത്തിക്കുന്നു പ്രധാനമായും ഷോർട് ടെർമ് റിലീഫിനെക്കാളും ലോങ്ങ് ടെർമ് പുനർനിർമ്മാണത്തിൽ അപ്പോൾ പ്രദേശവാസികളിൽ നിന്നും നേതാക്കളിൽ നിന്നുമുള്ള ഫീഡ്ബാക്ക്അനുസരിച്ച് വിവിധ സർവേകളുടെ അടിസ്ഥാനത്തിൽ അവർ എങ്ങനെയാണ് ഗുണഭോക്താക്കളെ കണക്കാക്കിയത് അവർ യഥാർത്ഥത്തിൽ അതിന്റെ മുഴുവൻ ചെലവും കണക്കാക്കുകയും അതുപോലെ ഏത് തരത്തിലുള്ള ആവശ്യകതകളും ആവശ്യങ്ങളും ഉണ്ടാവുമെന്ന് വിലയിരുത്തുകയും ചെയ്തു തുടർന്ന് അവർ പൊട്ടെൻഷിയൽ ആയ ഗുണഭോക്താക്കളെ മനസിലാക്കുന്നു അതിനാൽ ഈ സമയത്ത് അതിന്റെ വാസ്തുവിദ്യാ ആസ്പെക്റ്റിൽ വരുമ്പോൾപ്രാദേശിക നേതാക്കളുമായും ആ പ്രദേശത്തെ വിവിധ സ്റ്റേക്ക്ഹോൾഡ്റുകളുമായുംകൂടിയാലോചന പ്രക്രിയ നടത്തിയപ്പോൾ റാംഡ് എർത്ത് അഡോബ് എന്നിവയുടെ ഉപയോഗം ഉപേക്ഷിക്കാൻ അവർ തീരുമാനിച്ചു മികച്ച ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന മെറ്റീരിയലായിമാറുന്നതിന് പകരം ക്വിഞ്ച ടിമ്പർ ഫ്രെയിംപ്രോത്സാഹിപ്പിക്കാനും അവർ ആഗ്രഹിക്കുന്നു പ്രായോഗിക ആക്ഷൻ ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്ഇടയിൽ ഉള്ള തടി പോസ്റ്റുകൾ ഉപയോഗിച്ച് അവർ വികസിപ്പിച്ചെടുത്ത മാതൃകയെയാണ് ക്വിൻച നിർമ്മാണം എന്ന് വിളിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കോൺക്രീറ്റ് ബെഡ്ഡിംഗിൽഅല്ലെങ്കിൽ അടിത്തറയിൽ കുറച്ച് ആഴത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരുതരം ടിമ്പർ സ്റ്റഡുകളാണ് ഈ മതിൽ മുഴുവനും നമുക്ക് അറിയാവുന്നതുപോലെറാറ്റിൽ ആൻഡ് ഡൌബ് പോലെയാണ്ഈ മുളയുടെ സ്ക്രീൻ ഉണ്ട് അത് നെയ്ത ശേഷം സ്ലെണ്ടറിന്റെ ആദ്യത്തെ കോട്ട് ഉണ്ടാക്കി രണ്ടാമത്തെ സ്ലെണ്ടർ കോട്ട് പിന്നീട് മുളയുടെ സ്ക്രീനിൽ നിർമ്മിക്കുന്നു അതിനാൽ ആ രീതിയിൽ ഇതിന് ഒരു ഇന്റർമീഡിയറ്റ് വെർട്ടിക്കൽ സ്റ്റഡുകളുണ്ട് കൂടാതെ ഒരു ഹൊറിസോണ്ടൽ സ്റ്റഡുംഉണ്ട് കാരണം ഇത് മറ്റ് രണ്ട് സ്റ്റഡുകളിലേക്ക് ആണി ഇട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് തികച്ചും തദ്ദേശീയമായ ഒരു സാങ്കേതികതയാണ് അവർ ഈ ഭാഗം ചെറുതായി നവീകരിച്ചു ആദ്യത്തെ കോട്ടിൽ അവർ ചെയ്തത് റെൻഡറിൽ ആദ്യം അത് ഉണങ്ങാൻ അനുവദിക്കുകയും പിന്നീട് അതിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായും അവർ രണ്ടാമത്തെ കോട്ട് നിർമ്മിച്ചിരിക്കുന്നു അവിടെയാണ് രണ്ടാമത്തെ കോട്ട് ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് കാരണം അത് അതിന് ഒരു ടെക്സ്ചർ നൽകുന്നു അതിനാൽനെയ്ത ടിമ്പറിന്റെ ക്രോസ് സെക്ഷൻനിങ്ങൾ നോക്കുകയാണെങ്കിൽഇത് പോലെആയിരിക്കുംഅത് ഉണ്ടാവുക തറനിരപ്പും ഏകദേശം 300 മില്ലിമീറ്റർ ഉയരവും ഉള്ളിടത്ത് ഈ നെയ്ത തടി അതിൽ ഉറപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഏകദേശം 2 3 മീറ്ററാണ് ഇതിനെ നെയ്ത ഇൻഫിൽ എന്ന് വിളിക്കുന്നു നിങ്ങൾ ഡീറ്റെയിൽ A നോക്കുകയാണെങ്കിൽ ഈ ജംഗ്ഷനുംഈ ജംഗ്ഷനും അതിനാൽ ഇവയാണ് 2 ജംഗ്ഷനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് 100 മില്ലിമീറ്റർഡൈയമീറ്റർഉണ്ട് അതിൽ ഹൊറിസോൺടൽ സ്റ്റഡ്ഉൾച്ചേർത്തിരിക്കുന്നു അടിയിലും ഉണ്ട് അതിന് ഒരു റീസസ് ഉണ്ട്അതിനാൽ അത് ചുമരിന്റെ ബേസിലേക്കും 50 മില്ലീമീറ്റർ ഡൈയമീറ്ററിലേക്കും പോകുന്നുഇത് ഹൊറിസോണ്ടൽ സ്റ്റഡുംശരിയാക്കുന്നു ഇത് നടപ്പിലാക്കിയ ഒരുതരം ഡീറ്റൈൽ ആണ് തുടർന്ന് സാങ്കേതിക സംഘവും വിവിധ പ്രത്യേകതകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് പാഡുംസ്ട്രിപ്പ് ഫൌണ്ടേഷനും110 സിമൻറ്അഗ്രിഗേറ്റ്30 വലിയ കല്ലുകളും 18 സിമന്റ് മിശ്രിതമുള്ള കോൺക്രീറ്റ് ഭിത്തിയുടെ അടിത്തറ എന്നിവയും വേണമെന്ന് തടി ഘടനാപരമായ ഗുണമേന്മയുള്ള പോളുകളാണ് അതിനാൽ റെൻഡറിൽ അവർ വീണ്ടും ഒന്നാം കോട്ട് ചെളി 100 കിലോയും 50 കിലോ വൈക്കോലും മിക്സ് ആക്കുന്നുരണ്ടാമത്തെ കോട്ടിൽ സിമന്റും കുമ്മായം മണൽ അല്ലെങ്കിൽ അരിച്ച മണ്ണ് എന്നിവ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കലർത്തുന്നു അതിനാൽ ഇവിടെയാണ് 1 1 5 അല്ലെങ്കിൽ സിമന്റ് ഈസ് ടു ജിപ്സം സാൻഡ് അതിനാൽഇത് വീണ്ടും അവയെല്ലാം വോളിയം അനുസരിച്ചാണ് ഈ ക്വിൻസ് നിർമ്മാണത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അവർ ഇത്തരത്തിലുള്ള നിർമ്മാണം നവീകരിച്ചു കൂടാതെ കോൺക്രീറ്റ് വശവും കോൺക്രീറ്റ് അടിത്തറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ കോൺക്രീറ്റ് അടിത്തറകൾ നൽകി അതിനാൽ ഭൂകമ്പത്തിന് എതിരായി കൂടുതൽ നല്ല സ്റ്റബിലിറ്റി നൽകാൻ കഴിയും പിന്നെഹ്യൂമിഡിറ്റി യിൽ നിന്ന് സംരക്ഷിക്കാൻ മരം കൊണ്ടുള്ള കോളങ്ങൾ ടാർ അല്ലെങ്കിൽ പിച്ച് കൊണ്ട് ട്രീറ്റ് ചെയ്തുനെയിൽ കൊണ്ട് ഗ്രൌണ്ടിലേക്ക് കോൺക്രീറ്റ് ചെയ്തു അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് ഈ നെയിലുകൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിത്തട്ടിൽ കൂടുതൽ നങ്കൂരമിടാനും കോൺക്രീറ്റ് ഭിത്തിയുടെ ബേസിൽ മരത്തിനെയും ചുമരിലെ ചൂരലുകളെയും ഹ്യൂമിഡിറ്റി ബാധിക്കാതിരിക്കാനും അതുപോലെ തന്നെ സ്ട്രക്ച്ചറൽ ഇന്റഗ്രിറ്റി മെച്ചപ്പെടുത്താൻ കോളങ്ങളും ബീമുകളും തമ്മിലുള്ള ശ്രദ്ധാപൂർവമായ ജോയിന്റിങ്ങ് ചെയ്തിരിക്കുന്നു അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് അതാണ് ബീമുകളും കോളങ്ങളും ചേരുന്നത് നിങ്ങൾക്ക് കാണാം എത്ര ശ്രദ്ധയോടെയാണ് അവ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം കാരണം അവിടെയാണ് അത് മുഴുവൻ കെട്ടിടവും കെട്ടാൻ പോകുന്നത് ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ മുഴുവൻ ഘടനയും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കണം കാരണം ചൂരലുകൾ ഒരു ഫാഷനിൽ നെയ്തെടുക്കുമ്പോൾ അത് അതിന്റെ സൌന്ദര്യാത്മക സ്വഭാവം മാത്രമല്ല ഒരുതരം ഘടനാപരമായ സ്ഥിരതയും നൽകുന്നു മേൽക്കൂരയുടെ കാര്യത്തിൽ റൂഫ് ടൈലുകളോഅഡോബ് റൂഫുകളോവീഴുമ്പോൾ താമസക്കാർക്ക് ഉണ്ടാവുന്ന അപകടസാധ്യത കുറയ്ക്കുന്നതിന് ഭാരം കുറഞ്ഞ ഗാൽവാനൈസ്ഡ് മെറ്റൽ ഷീറ്റ് റൂഫിംഗ്ഉണ്ട് അതിനാൽ കെട്ടിടം കുലുങ്ങുമ്പോൾ കല്ലുകൾ ആളുകളുടെ മേൽ പതിക്കാറുണ്ടായിരുന്നു അതിനാൽ ഭാരം കുറഞ്ഞ വസ്തുക്കൾ വാങ്ങാൻ അവർ ചിന്തിച്ചു അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സോറിറ്റർ ഏരിയയിലെഒരു കമ്മ്യൂണിറ്റി കെട്ടിടമാണ് അതിനാൽ അവർ ചെയ്തത് ഈ സാങ്കേതികവിദ്യ നവീകരിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം അവർ ചെയ്തത് സ്കൂളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കെട്ടിടങ്ങൾ പോലുള്ള പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അവർ ശ്രമിച്ചു അതുവഴി ആളുകൾക്ക് ഈ സാങ്കേതികവിദ്യയെക്കുറിച്ച് കുറച്ച് അവബോധം ലഭിക്കുകയും അവർക്ക് പ്രാദേശിക ആളുകളെ പരിശീലിപ്പിക്കുകയും ചെയ്യാം അവർക്ക് പരിശീലനം നൽകാം ചില പരിശീലന സെഷനുകൾ സങ്കടിപ്പിക്കാം അല്ലെങ്കിൽ കൊത്തുപണി പരിശീലനം നൽകാം അങ്ങനെ ഇത് മറ്റസ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാം അതിനാൽ അവർ വികസിപ്പിച്ച രീതി അടിസ്ഥാനപരമായി ഒരു ടീമിൽ 20 മുതൽ 40 വരെ ആളുകൾ ഉണ്ട് തുടർന്ന് അവർ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു അവർക്ക് പരിശീലനം ലഭിച്ചു അവരെ വിവിധ സൈറ്റുകളിൽ നിയോഗിച്ചു അതിനാൽഇങ്ങനെയാണ് മെത്തഡോളജി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗുണഭോക്താക്കളുടെ ഐഡന്റിഫിക്കേഷനും ആദ്യ കോൺടാക്റ്റുകളും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവയുണ്ട് ഗുണഭോക്താക്കളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഈ ഗുണഭോക്താക്കളെ എങ്ങനെ കണ്ടെത്താം ഇവിടെയാണ് സാമൂഹിക സാമ്പത്തിക ശാസ്ത്രവും പങ്ക് വഹിക്കുന്നത് ഡാമേജ് സ്റ്റാറ്റിസ്റ്റിക്കിനും നല്ല ഒരു പങ്ക് ഉണ്ട് ഇവിടെയാണ് പ്ലോട്ടുകളുടെ ടൈപ്പോളജി ഇപ്പോൾ ആരാണ് ഭൌതിക റിസോർസസ് വിതരണം ചെയ്യുക റിസോർസസ് നൽകാൻ അവർ കമ്മ്യൂണിറ്റികളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രധാന പ്രശ്നം ഗതാഗതമാണ്പിന്നെ ചില സ്ഥലങ്ങളിൽ മുള പ്രാദേശികമായി ലഭ്യമല്ല അവർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റോ മെറ്റീരിയലുകൾ കൊണ്ടുപോകേണ്ടതുണ്ട് അവിടെയാണ് ചില എൻജിഒ കളുംNGOs ചില സാങ്കേതിക മാർഗങ്ങൾ നൽകുന്നത്കൂടാതെ പരിശീലനവും നൽകുന്നു അതിനാൽ ആദ്യമായി ഈ ഘട്ടത്തിൽ സംഭരണവും പിന്നെ ഈ ഘട്ടത്തിൽ തിരിച്ചറിയലും പരിശീലനവും പ്രചരണവും നടക്കുന്നു അവിടെയാണ് അവർ നടപ്പാക്കൽ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇവിടെയാണ് അവർ പ്രമോഷനുകളെ കുറിച്ച് സംസാരിക്കുന്നത് കൂടാതെ വിവിധ എൻജിഒകളുമായും NGOsഗുണഭോക്താക്കളുമായും ഉള്ള കരാറുകൾ അതുപോലെ തന്നെ മെറ്റീരിയലുകൾനൽകൽ വിവിധ ഘട്ടങ്ങളിൽ അവർ എങ്ങനെ നടപ്പിലാക്കുംസാങ്കേതിക മേൽനോട്ടം അവർ എങ്ങനെ യഥാർത്ഥത്തിൽ നടപ്പിലാക്കണം വിവിധ ഘട്ടങ്ങളിൽ അത് എങ്ങനെ നടത്തണം എന്നിവയെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് ഇവിടെയാണ് പ്രവർത്തന രീതി വികസിപ്പിച്ചെടുത്തത് ഇങ്ങനെയാണ് അതിനാൽ എന്ത് തരത്തിലുള്ള ആഘാതം ആണ് ഇപ്പോൾ ഉള്ളത് നോക്കൂ നിങ്ങൾ കാണുന്നത് ഈ കെട്ടിടങ്ങളിലൊന്നാണ് ജെപെലാസിയോയിലെ ഒരു മെച്ചപ്പെട്ട ക്വിഞ്ച കെട്ടിടമാണ് ഇവിടെ എന്ത് ആഘാതം ആണ് ഉണ്ടായത് 1991 മുതൽ 3 4 വർഷങ്ങൾക്ക് ഉള്ളിൽ 1994 വരെ ആൾട്ടോ മയോ പ്രവിശ്യക്കുള്ളിൽ ഏകദേശം 558 മെച്ചപ്പെട്ട ക്വിൻച വീടുകൾ ഉണ്ട്ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആ പ്രത്യേക പ്രവിശ്യയിൽ പുരുഷന്മാരും സ്ത്രീകളും സ്വതന്ത്രമായി നിരവധി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ 1993 ൽ ദേശീയ സെൻസസ്കണക്കാക്കിയത് ദേശീയ ഭവന ശേഖരത്തിന്റെ 7 മാത്രമാണ് ക്വിഞ്ച എന്നാൽ പദ്ധതി പ്രദേശത്ത് ഈ കണക്ക് ഏകദേശം 30 ആയി ഉയർന്നു അതിനാൽ അത്തരം പ്രചോദനം അവരെ പ്രേരിപ്പിക്കുകയും 30 ചതുരശ്ര മീറ്റർ വീട് നിർമ്മിക്കാൻ ഏകദേശം 1300 യുഎസ് ഡോളർ എടുക്കുകയും ചെയ്തു ഇത് ഒരു ഇഷ്ടികയോ കോൺക്രീറ്റോ ആയ വീടാണെങ്കിൽ അത് ഏകദേശം മൂന്നിരട്ടി തുക എടുക്കുമായിരുന്നു ഏകദേശം 5400 ഡോളർ കാരണം ഇതിന് ഒരു വിദഗ്ദ്ധ തൊഴിലാളിയും വിദഗ്ദ്ധ കരാറും ആവശ്യമാണ് എന്നാൽ ഇവിടെ ഈ പ്രത്യേക സമൂഹത്തിന് നേട്ടങ്ങൾ ഉണ്ടായത് വിദഗ്ധ തൊഴിലാളികളും ആ മേഖലയിൽ എളുപ്പത്തിൽ ലഭ്യമായിരുന്നതിനാലും മെറ്റീരിയൽ റിസോഴ്സസുംമറ്റു പല റിസോഴ്സസുംമുളയും എല്ലാം ആ പ്രദേശത്ത് ലഭ്യമായതിനാലും ആണ് അതായത് ടിമ്പർറിസോഴ്സസ് വൈദഗ്ദ്ധ്യം എല്ലാം ലഭ്യമാണ് അങ്ങനെ അത് നടന്നു ചെലവ് കുറഞ്ഞു ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ 18 വർഷങ്ങൾക്ക് ശേഷം അതേ ഗുഹകൾനിങ്ങൾക്കറിയാമോരചയിതാക്കൾ അന്വേഷിച്ചപ്പോൾ അവർ എന്ത് മാറ്റങ്ങളാണ് നോക്കിയത് ഇപ്പോൾ ക്രമേണ ഒന്ന് പെറുവിലെ വടക്കൻ തീരത്ത് വരൾച്ച തുടർച്ചയായി സംഭവിക്കുന്നു അത് കൂടുതൽ വെള്ളം ആവശ്യമുള്ള പ്രധാന വിളകളായ അരി കരിമ്പ് എന്നിവയെ ബാധിക്കുകയും ജലസ്രോതസ്സുകളെ ബാധിക്കുകയും ചെയ്തുആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറാനുള്ള ഒരു കാരണം ഇതാണ് ഇവിടെ ഈ പ്രത്യേക ആൾട്ടോ മയോമേഖലയിൽ കുടിയേറ്റക്കാരന്റെ ജന്മദേശത്തെ ഭൂമിയേക്കാൾ മികച്ച ഗുണനിലവാരമുള്ള സ്വതന്ത്ര ഭൂമിയുമുണ്ട് അതിനാൽ വടക്കൻ തീരപ്രദേശത്ത് 0 5 ഹെക്ടർ ഭൂമിക്ക് പകരം ഏകദേശം 2 മുതൽ 3 ഹെക്ടർ ഭൂമി വരെ കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ആളുകൾ കുടിയേറാൻ പ്രവണത കാണിക്കുന്നത് ഏകദേശം 1994 ൽ കുടിയേറ്റം നോക്കിയാൽ ജനസംഖ്യാ വളർച്ചയുടെ 4 3 ൽ 1 3 ഉം കുടിയേറ്റ ജനസംഖ്യയാണ് ഈ വ്യവസ്ഥകൾ കണക്കിലെടുത്ത് സാധ്യമായ കൃഷിയിടങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അതിനാൽ അവിടെയാണ് അവർ ചില പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയും സാധ്യമായ കൃഷിയിടങ്ങളിൽ പ്രവർത്തിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് അതിനാൽ 2003 ലെ 32000 ഹെക്ടറിൽ നിന്ന് 2005 ൽ 80000 ഹെക്ടറായി അതായത് ഇരട്ടിയിലേറെയായി യഥാർത്ഥത്തിൽ ഉൽപ്പാദനം വർദ്ധിച്ചു മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദനവും ഇറക്കുമതിയും കുറഞ്ഞു അതിനാൽ ഇത് ഒരു പ്രധാന പരിഗണനയാണ് കാരണം ആളുകൾക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക നില ലഭിക്കുന്നു തുടക്കത്തിൽഇത് പങ്കാളിത്തത്തോടെ ആരംഭിച്ചതാണ് എന്നാൽ ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി അവരെ സ്വതന്ത്രരാക്കുന്നതിനാൽ അവർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു നേരത്തെ പ്രാദേശിക ഭരണകൂടം ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുഎന്നാൽ ഇപ്പോൾ ക്രമേണ പ്രാദേശിക സർക്കാരും മുഴുവൻ പ്രക്രിയയുടെയും ഭാഗമാകുകയും സാമ്പത്തിക നില യഥാർത്ഥത്തിൽ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പക്ഷേനമ്മൾ പൊതുസ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു ചില പ്രധാന സ്ക്വയറുകൾ ഒഴികെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആൾട്ടോ മയോയിലെ ഒരു പ്രധാന സ്ക്വയർ ആണ് സെക്കന്ററിറോഡുകൾ സാധാരണയായി നടപ്പാതയില്ലാത്തതും പ്രധാന സ്ക്വയറുകളിൽ ഒഴികെ മറ്റുള്ളിടത് മരങ്ങളോ തോട്ടങ്ങളോ ഇല്ലെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അവ പൊതു ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല അതിനാൽ കുടിയേറ്റക്കാർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അവർ പട്ടണങ്ങളുടെ പ്ലോട്ടുകളിലും പ്രാന്തപ്രദേശങ്ങളിലും സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയത് അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും അങ്ങനെ കൂടുതൽ ഭവനങ്ങൾക്കും വീടുകൾക്കുമുള്ള ഡിമാൻഡ് സൃഷ്ടിക്കുകയും ചെയ്തു കൂടുതൽ കുടിയേറ്റം വരാൻ തുടങ്ങിയതിനാലും ഭവനങ്ങളുടെയും സേവനങ്ങളുടെയും ആവശ്യം കൂടി അതായത് അവർ മുൻ ആസൂത്രണങ്ങളൊന്നുമില്ലാതെ പുതിയ വാസസ്ഥലങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങിവനനശീകരണമാണ് പ്രധാന ആസ്പെക്ട്1 33 ദശലക്ഷം ഹെക്ടറർ വനനശീകരണം നടന്നതായി പറയുന്നു ഈ കുടിയേറ്റ പ്രക്രിയയിലൂടെയും മൊത്തം വിസ്തൃതിയുടെമൊത്തം പ്രദേശത്തിന്റെ ഏകദേശം 27 വനനശീകരണത്തിന് വിധേയമായി ഇപ്പോൾ അവിടെയാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരോക്ഷമായ ആഘാതത്തെ കുറിച്ച് സംസാരിക്കുന്നത് അത് ജലക്ഷാമത്തിന് കാരണമായേക്കാം ഇത് വീണ്ടും കാർഷിക ആഘാതങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ചക്രമായി മാറും ആൾട്ടോ മയോനിർമ്മാണങ്ങളെ കുറിച്ചുള്ള സംക്ഷിപ്തമാണിത് രണ്ടാമത്തേത് പിയൂര മേഖലയിലെ മൊറോപോണിലെ ഓൺ സൈറ്റ്പുനർനിർമ്മാണത്തെയും പ്രളയാനന്തര പുനർനിർമ്മാണത്തെയും കുറിച്ചുള്ളതാണ് 1997 ലും 1998 ലും വീണ്ടും എൽനിനോപ്രതിഭാസം ഉണ്ടായി ഏകദേശം 9 മാസത്തോളം കനത്ത മഴയും വെള്ളപ്പൊക്കവും ടെമ്പറേച്ചറിൽമാറ്റവും ഉണ്ടായി തത്ഫലമായി പിയൂരയിൽ 85000 ത്തിലധികം ഇരകളുണ്ടായി8000 വീടുകളെയും അത് ബാധിച്ചു കാർഷിക മേഖലയായതിനാൽ ഈ പ്രത്യേക പ്രദേശം അതിന്റെ കാർഷിക മേഖലയാൽ സമ്പന്നമാണ് അതിനാൽ ഒരാൾ പുനർനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെട്ടാൽ തുടർന്നുള്ള ജലക്ഷാമം തടയുന്നത് എങ്ങനെയെന്ന് അവർ ശ്രദ്ധിച്ചു ജലസേചന പദ്ധതികൾ നിർമ്മിച്ചുഅണക്കെട്ടുകൾ നിർമ്മിച്ചു വെള്ളപ്പൊക്കം തടയാൻ 1 മീറ്റർ അടിയിൽ കോൺക്രീറ്റ് അടിത്തറയുള്ള മെച്ചപ്പെട്ട രീതിയിലുള്ള ക്വിഞ്ച നിർമ്മിച്ചു വീണ്ടും പ്രാദേശിക ആൾക്കാരുടെയും വസ്തുക്കളുടെയും സജീവ പങ്കാളിത്തത്തോടെ അവർ ക്വിഞ്ച ടിമ്പർ ഫ്രെയിംഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെയും പങ്കാളിത്തം സംയോജിപ്പിച്ച് പ്രാദേശിക സാമഗ്രികൾ നേടുന്നു ഇപ്പോൾ ഇവിടെ വീണ്ടും കാർഷിക കുടുംബമെന്ന നിലയിൽഅർബൻ പ്ലാനിങ്ന്റെമുഴുവൻ ആശയവും എന്തെന്നാൽ അപകടസാധ്യത കുറയ്ക്കുകയും ജലവും സേവനങ്ങളും കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെയാണ് എല്ലാ ഭവന സമുച്ചയങ്ങളും ഏകദേശം 200 ചതുരശ്ര മീറ്റർ പ്ലോട്ടുകളിൽ നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽഇവിടെ ചില സാങ്കേതിക മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് വെള്ളം എങ്ങനെ ഉപയോഗിക്കണം കിണറുകളുടെയും ജലവിതരണ സ്രോതസ്സുകളുടെയും കാര്യക്ഷമമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു ഡ്രെയിനേജ് പഠനങ്ങളിൽ റിസ്ക് മാപ്പിംഗ്നടത്തിയിട്ടുണ്ട് കൂടാതെ അവർ ചില ദുർബലമായ സ്ഥലങ്ങളും കണ്ടെത്തി ജനങ്ങളെയും അറിയിച്ചിട്ടുണ്ട് ജലവിഭാഗത്തിലും ജലസേചന സേവനങ്ങളിലും കൂടുതലായി ഊന്നിപ്പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇന്ന് ഇവിടുത്തെ സാഹചര്യം വളരെ വർണ്ണാഭമായതും സന്തോഷപ്രദവുമാണ് ഒന്ന് ആളുകൾ പൂക്കൾ നട്ടുപിടിപ്പിക്കുകയും ചെറിയ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കൂടാതെ അവർ പ്രാദേശിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന സ്വന്തം സംവിധാനം വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു അവർക്ക് അടിസ്ഥാനപരമായി ടിൻ ഷീറ്റുകൾ ഉണ്ടായിരുന്നതിനാൽ ഈ നൂതനമായ ക്വിൻച സിസ്റ്റംഉപയോഗിച്ച് അവർ ചില പ്രാദേശിക സാങ്കേതിക വിദ്യകളും സ്വീകരിച്ച് അവരുടെ വാസസ്ഥലങ്ങൾ പരിഷ്കരിക്കാൻ ശ്രമിച്ചു അതിനാൽ കാലാവസ്ഥാ വശങ്ങളോടും സാംസ്കാരിക പോരായ്മകളോടും വളരെ വ്യക്തിപരമായ പ്രതികരണം ഉണ്ടാവുക സ്വഭാവികമാണ് പക്ഷികൾമർമെയിഡുകൾജ്യാമിതീയ രൂപങ്ങൾ എന്നിങ്ങനെയുള്ള ഡ്രോയിംഗുകൾ ഉപയോഗിച്ച് വിവിധ ചുവർച്ചിത്രങ്ങൾ വരച്ചതിനാൽ മുൻഭാഗങ്ങൾ കൂടുതൽ ആകർഷണമുള്ളതായി അതിനാൽ അവർ അവിടെ സ്വകാര്യ പൂന്തോട്ടങ്ങളുണ്ടാക്കിപച്ചപ്പിന്റെ ആശങ്കകൾ അവർ ശ്രദ്ധിച്ചു സമൂഹത്തിന്റെ ആത്മാഭിമാനം വളരെയധികം പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണ് അവർ ആത്മാഭിമാനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയത് മൂന്നാമത്തെ കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യാംഅത് വീണ്ടും ഒരു ഓൺ സൈറ്റ് പുനർനിർമ്മാണത്തെയും ചുസ്ചിയിലെയും ക്വിസ്പില്ലക്റ്റ അയകുച്ചോയിലെഭൂകമ്പത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തെയും കുറിച്ചാണ് ഇതൊരു അഡോബ് ഹൌസാണ്അവർ ചെയ്തത് എന്തെന്നാൽ അവർ അഡോപ്റ്റ് ചെയ്തതാണ്കാരണം ഈ 5 അല്ലെങ്കിൽ 6 സെറ്റിൽമെന്റുകളിലാണ്ദാരിദ്ര്യം ഒരു പൊതു ഘടകമാണ് ഇവിടെ അവർ ചെയ്തത് അഡോബ് സ്ക്വയർ ബ്ലോക്കുകൾനിർമ്മിക്കാൻ അവരെ പരിശീലിപ്പിക്കാനും ഈ അഡോബ് ഹൌസുകൾനിർമ്മിക്കുന്നതിൽ അവരെ പരിശീലിപ്പിക്കാനും ശ്രമിച്ചു അതിൽ എങ്ങനെ ചില മെച്ചപ്പെടുത്തലുകൾ വരുത്താം പിന്നെയും ഇവിടെയും അവർ ജനങ്ങളോട് കൂടിയാലോചിച്ചു ഏത് തരത്തിൽ ഉള്ള ഗുണഭോക്താക്കൾ അവർ ഈ വീടുകൾ ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടു പക്ഷെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ പൊതു സ്ഥലങ്ങൾ വലുതായി മെച്ചപ്പെട്ടില്ല തെരുവുകൾ ക്രമേണ നശിച്ചുകല്ല് ഭാഗങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല ഏകീകൃത നടപ്പാതകളും ചാലുകളും വൃത്തിയാക്കിയിട്ടില്ല അതായത് ഇവിടെയാണ് പൊതുസ്ഥലത്ത് തന്നെ ഒരു അശ്രദ്ധയുണ്ട് എന്നാൽ രസകരമായ ഒരു കാര്യം ക്വിസ്പില്ലക്റ്റയിലെഈ പ്രത്യേക കൊത്തുപണികളുള്ള കല്ല് പള്ളി നിർമ്മിക്കാൻ ആളുകൾ സമയവും അധ്വാനവും ചെലവഴിച്ചു എന്നതാണ്ഇതാണ് ഒരു നല്ല അടയാളം പക്ഷേ എന്നിരുന്നാലും ഇത് മൊത്തത്തിലുള്ള സ്കീമിലേക്ക് എടുത്തിട്ടില്ല നിങ്ങൾക്കറിയാമോ ഈ കിണർ നിർമ്മിക്കുന്നതിന് അതേ ഊർജ്ജം തന്നെ നന്നായി ഉപയോഗിക്കാമായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണിത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് കാരണം ജനങ്ങൾ ആശ്രിതരാകുകയും അവരുടെ അന്തസ്സും ആത്മാഭിമാനവും നഷ്ടപ്പെടുകയും ചെയ്തുകാരണം സർക്കാർ സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്നു ആ വിധത്തിൽ പങ്കാളിത്തത്തിന്റെ വശം ക്രമേണ കുറയുകയും അവർ മിക്കവാറും സംസ്ഥാന സ്ഥാപനങ്ങളുടെ പിന്തുണയെ ആശ്രയിക്കുകയും ചെയ്യുന്നു അതായത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ പിന്തുണയോ സഹകരണമോ തേടുന്നു തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരുതരം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയായ അയ്നികമ്മ്യൂണിറ്റിപ്രവർത്തനത്തിന്റെ ഒരു പരമ്പരാഗത രൂപമാണിത് അവർക്കുണ്ടായിരുന്ന ഈ പരമ്പരാഗത വ്യവസ്ഥഅത് ക്രമേണ നശിപ്പിക്കപ്പെടുകയും വികസനത്തിന്റെ പരിശ്രമങ്ങളും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഉദ്ദേശ്യങ്ങളും പാഴാവുകയും ചെയ്തു അതിനാൽ ഇത്തരത്തിലുള്ള ഊർജം ഉണ്ടായിരുന്നിട്ടുംഅവർക്ക് അത് സമഗ്രമായി നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ ഓൺ സൈറ്റ്പുനർനിർമ്മാണത്തിലും ഭൂകമ്പാനന്തര പുനർനിർമ്മാണത്തിലും മൊക്വെഗുവയിൽ 2001 ൽ ആഘാതമേറ്റു ഏകദേശം 6 9 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിന്റെ ആഘാതം സംഭവിക്കുകയും ഏകദേശം 11886 വീടുകൾ നശിപ്പിക്കപ്പെടുകയും വാസയോഗ്യമല്ലെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു എൻജിഒകൾ NGOsചിത്രത്തിലേക്ക് വരുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവർ വീണ്ടും ചെയ്തത് എന്തെന്നാൽഅവർ പ്രാദേശിക സർക്കാരുകളുമായും പ്രാദേശിക നേതാക്കളുമായും പ്രവർത്തിക്കുന്നു ഗുണഭോക്താക്കളുടെ പട്ടിക എന്താണെന്നുംഎങ്ങനെ നൽകാമെന്നും മാപ്പ് ചെയ്യാൻ അവർക്ക് കഴിയും 3 ഘട്ടങ്ങളിലായി അവർ 195 കുടുംബങ്ങളെ ലക്ഷ്യമിട്ടു ഇത് ഏകദേശം 2001 നും 2003 നും ഇടയിൽ മാറിസ്ക്കൽ നീറ്റോ പ്രവിശ്യയിൽ നടപ്പിലാക്കി അതിനാൽമോക്വഗുവഒന്നിൽ അവർ ഏകദേശം 103 അഡോബ് വീടുകൾ നിർമ്മിച്ചു വീണ്ടും ഘട്ടം രണ്ടിൽ 42 വീടുകൾ നിർമ്മിച്ചു അവസാനത്തേതിൽ 50 കോൺക്രീറ്റ് ബ്ലോക്കുകളുള്ളവീടുകളാണ് ഉള്ളത് അതിനാൽ ഇവിടെ സംഭവിക്കുന്നത് റീക്കവറി പ്രക്രിയയിൽ കമ്മ്യൂണിറ്റിയെഉൾപ്പെടുത്തുന്നത് അവർ ശ്രദ്ധിക്കുകയുംഅവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തുഇത് വളരെ വിജയകരം ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്നാൽ ഇവിടെമൈനിങ്ങ് ആസ്പെക്ട്കാരണം പ്രാദേശിക സർക്കാരിനും ചില മൈനിംഗ് ഫീസ് ലഭിച്ചു അത് വീണ്ടും നഗര സേവനങ്ങൾ നൽകാനും സമൂഹത്തിൽ നിക്ഷേപം നടത്താനും ഉപയോഗിച്ചു അതിനാൽആളുകൾ കമ്മ്യൂണിറ്റി പങ്കാളിത്തം നിയന്ത്രിക്കുകയും ഫണ്ടുകളുടെ വിതരണം കാര്യക്ഷമമായി ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽമൈനിങ്ങ്ഏറ്റവും സമ്പന്നമായ സമ്പദ്വ്യവസ്ഥയാണ് അതിനാൽ ഈ സേവനങ്ങൾ സുഗമമാക്കുന്നതിന് ഇത് പിന്തുണയ്ക്കുന്നു കോൺക്രീറ്റ്കട്ടകളുള്ള രണ്ട് വീടുകളും അതുപോലെ തന്നെ അഡോബും നല്ല അവസ്ഥയിൽ തുടർന്നു രണ്ട് സാഹചര്യങ്ങളിലും സാങ്കേതികമായി മാർഗനിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനാൽ അവ നല്ല നിലയിൽ തുടർന്നു ഇവിടെയാണ് അവർ വീടിനുള്ളിൽ ഒന്ന് കൂടി നടപ്പിലാക്കിയത് മേൽക്കൂര നിർമ്മിച്ചത് കോൺക്രീറ്റ് ട്രസ് ബീമുകൾകൊണ്ടാണ് ഈ കോൺക്രീറ്റ് ട്രസ് ബീമുകൾഒരു ഇന്നോവേഷൻ ആണ് മറ്റൊന്നാണ് തുംബാഡില്ലോ ചൂട് കുറയ്ക്കാനും മികച്ച രൂപം നൽകാനും മേൽക്കൂരയുടെ താഴത്തെ ഭാഗത്ത് ഒരു തുണി കവർ സ്ഥാപിക്കുന്നതാണിത് അതിനാൽ അവർ മേൽക്കൂരയ്ക്ക് താഴെ ഒരു തുണി മറയ്ക്കാൻ ശ്രമിക്കുന്നു അതുവഴി ചൂട് പ്രതിഫലിപ്പിക്കുകയുംഅത് ഇൻഡോർ അന്തരീക്ഷത്തെ കുറച്ച് തണുപ്പിക്കാനും കഴിയും ആളുകൾ ഇതിൽ പങ്കാളികളാകുമ്പോൾ സമ്പദ്വ്യവസ്ഥ പിന്തുണ നൽകുമ്പോൾ പ്രാദേശിക ഭരണകൂടം സാങ്കേതികമായി സുരക്ഷിതമായ ഒരു പരിതസ്ഥിതിക്ക് പിന്തുണ നൽകുന്നു അതിനാൽ നഗര നിക്ഷേപങ്ങൾ മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് തെരുവുകൾ കല്ല് പാകിയിട്ടുണ്ട് ഒരു സിവിക് സെന്റർനിർമ്മിച്ചു പൊതു ഇടങ്ങൾ സുഖകരമാണ് കുട്ടികളുടെ കളിസ്ഥലങ്ങൾഎല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നു ഇവിടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം സഹകരണം ആണ് സമൂഹത്തിന്റെ സഹകരണം എങ്ങനെ അത് ഈ പ്രക്രിയയിൽ തുടരുന്നു മുൻകാല കേവുകളിൽ തുടക്കത്തിൽ അവർ അതിന്റെ ഭാഗമായിരുന്നു എന്നാൽ പിന്നീട് അതിന്റെ ആശ്രിത ഭാഗമാകുകയുംപിന്നീട് അവർ അത് അവഗണിക്കുകയും ചെയ്തു അതിനാൽ ഈ സാഹചര്യത്തിൽ അത് തുടരുകയായിരുന്നു ഇത് മറ്റൊരു കേസാണ് സ്ഥലംമാറ്റം ഇക്കയിലെയും നാസ്ക്കയിലെയും ഭൂകമ്പത്തിന് ശേഷമുള്ള സ്ഥലം മാറ്റൽരണ്ടാമത്തേത് ഇനിപ്പറയുന്ന കേസും ഇക്കയിലാണ് ഇവിടെയും അവർ ചെയ്തത് സമാനമായ മാതൃകകളാണ് അവർ പിന്തുടരുന്നത് ഇവിടെ ആളുകൾക്ക് അവരുടെ ഇനീശിയൽ നഷ്ടപ്പെട്ടു എന്നാൽ ഇന്ന് സ്ഥിതി എന്തെന്നാൽ അവർക്ക് അവരുടെ ഇനീഷിയേറ്റീവ് നഷ്ടപ്പെട്ടു സെറ്റിൽമെന്റ് കാഴ്ച പൊതുവെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു കാരണം പ്രധാനമായും വാഗ്ദാനമായ ഭൂമിയുടെ പട്ടയം നിർവചിക്കപ്പെട്ടിട്ടില്ല അതിനാൽ ഭൂമിയുടെ പട്ടയങ്ങൾ നിർവചിക്കപ്പെടാത്തത് അവർക്ക് ഒരു ചെറിയ അരക്ഷിതാവസ്ഥ നൽകുന്നു അവിടെയാണ് അവരുടെ കൈവശാവകാശത്തിന്റെ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നത് അതിനാൽ ആളുകൾ അവരുടെ സെറ്റിൽമെന്റ് വികസിപ്പിക്കുന്നതിന് സമയമോ പരിശ്രമമോ ചെലവഴിക്കുന്നില്ല കൈവശാവകാശം ഇല്ലെന്ന് നിങ്ങൾക്കറിയുമ്പോൾ ആ സ്ഥലം മികച്ചതാക്കാൻ നിങ്ങൾ എങ്ങനെ കുറച്ച് തുക ചിലവാക്കുകയും പ്രയത്നിക്കുകയും ചെയ്യും അതുപോലെ തന്നെ തെരുവുകൾ കല്ല് പാകിയിട്ടില്ല പ്രധാന സ്ക്വയറുകൾ അവഗണിക്കപ്പെട്ടു പക്ഷേ ഇവിടെയും അവർ ഉപയോഗിക്കുന്ന വീടുകൾ ഈ ക്വിൻച ടെക്നിക്തന്നെയാണ് അവ ഇപ്പോഴും നല്ല അവസ്ഥയിലാണ് കൂടാതെ മറ്റ് കേസിൽ നിങ്ങൾ കാണുന്ന പോലെ വീടുകൾ വിപുലീകരിച്ചിട്ടുണ്ട് അവസാനത്തേത് റീലൊക്കേഷൻ ആണ് ഇക്കയിലെ ടിയറ പ്രൊമെറ്റിഡയിലെവെള്ളപ്പൊക്ക ബാധിതരെ റീലൊക്കേഷൻ ചെയ്യുന്നതാണ് അവസാനത്തേത് അതിനാൽ ഇവിടെ പള്ളിയും മിഷനറിയുംസ്ഥലം മാറ്റ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു അതിനാൽ അവർ ചെയ്തത് തുടക്കത്തിൽ അവർ താൽക്കാലിക ഷെൽട്ടറുകളും ട്രാൻസിഷൻ ഷെൽട്ടറുകളുംപിന്തുണച്ചിരുന്നു പിന്നീട് ചർച്ചകൾ നടത്തി അവരുടെ വീടുകൾ മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ ചില സഹായ ഹസ്തങ്ങൾ നൽകുന്നതിൽ സഭ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാത്തത് സമൂഹമല്ല ജോലിയുടെ പ്രതിഫലം വാങ്ങി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് പുരോഹിതനോ സഭയോ ആണ് അവർ അത് സ്വന്തം നേട്ടത്തിനായി ചെയ്യുന്നു അതിനാൽ അതിനർത്ഥം ആളുകൾ സെറ്റിൽമെന്റിൽ പങ്കെടുക്കുന്നു പക്ഷേ അവർക്ക് അതിന് പണം നൽകുന്നു അതിനാൽ ഇത് പണമടച്ചുള്ള ഒരു പ്രക്രിയയായി മാറുന്നു ഈ പാറ്റേർണലിസം ചാരിറ്റിയുടെ തെറ്റായ ഒരു ആശയം വെളിപ്പെടുത്തുന്നു ഇത് സംഭാവനകളെ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഇത് ജനങ്ങളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെയും ബാധിക്കുന്നു അതിനാൽ ഇവിടെ അവരെ ഉൾപ്പെടുത്തി അതിന്റെ ആത്മാഭിമാനം മനസ്സിലാക്കിപ്പിക്കുന്നതിന് പകരം അവർ ആശ്രിതരാകുന്നത് അവരുടെ സ്വന്തം ജോലിക്ക് പ്രതിഫലം കിട്ടുന്നതിനാലാണ് ആ പ്രക്രിയയിൽ സംഭവിക്കുന്നത് അവർ ഏതാണ്ട് ഒരുതരം യാചന ശീലമാക്കിയിരിക്കുന്നു നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെങ്കിലും തങ്ങളെ പിന്തുണയ്ക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ അവസാനത്തെ കേസ് പഠനത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠമാണിത് പക്ഷെ എല്ലാം കൂടി സംഗ്രഹിച്ചാൽ ദുരന്തസാഹചര്യങ്ങൾ ഉള്ളപ്പോൾജീവനഷ്ടം ഉണ്ടാവുന്നത് പൊതുവായ കാര്യമാണ് നശിച്ച ഭവനങ്ങൾ സേവനങ്ങൾക്കുള്ള നാശനഷ്ടങ്ങൾ കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസത്തിനും ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഉണ്ടാവുന്ന കേടുപാടുകൾ ഉൽപാദന സൌകര്യങ്ങൾ വിളകൾ കന്നുകാലികൾ എന്നിവയുടെ നാശംപ്രാദേശിക ഗവൺമെന്റുകളുടെ തടസ്സം ഇവയൊക്കെ എല്ലാ കേസിലും കാണാം കാരണം എല്ലാ കേസുകളിലും മാനസികവും വൈകാരികവുമായ നാശനഷ്ടങ്ങൾ കാരണം കുടിയേറിപ്പാർത്ത ഗ്രൂപ്പുകളാണ് അധികവും ഉണ്ടാവുന്നത് എന്നാൽ അടിസ്ഥാന വശം പൊതുവായ വശം ദാരിദ്ര്യമാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ അവസാന കേസുകളിൽ റിക്കവറി പ്രക്രിയയിൽസ്ത്രീ ഒരു പ്രധാന പങ്ക് വഹിച്ചു അവർ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചില ഗ്രൂപ്പുകളെ നയിക്കുകയും ചെയ്യുന്നു അതിനാൽ അതും ഒരു പ്രധാന ആസ്പെക്ട് ആണ് അതിനാൽ ഇവിടെ വൈവിധ്യങ്ങൾ ഉണ്ട് പ്രാദേശിക ഗവൺമെന്റുകളുടെ പങ്ക് അവർ എങ്ങനെ ചർച്ചകൾ നടത്തുന്നു എങ്ങനെയാണ് അവർ ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് എന്നൊക്കെ കാണാം സർക്കാർ സ്ഥാപനങ്ങൾ തീർച്ചയായും അത് ഒരു ആശ്രിതത്വവും സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ പഠിച്ചു അവരെ സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന എൻജിഒ കൾNGOs കമ്മ്യൂണിറ്റി ഏജൻസികൾഎന്നിവരും ഈ കോഴ്സിന്റെ ഭാഗമാണ് അതിനാൽ ഈ റിക്കവറി പ്രക്രിയയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത ആളുകൾ ഇവരാണ് അതിനാൽനമ്മൾ പഠിച്ച പാഠങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് ആൾട്ടോ മയോയുടെആദ്യ സംഭവത്തിൽ വലിയ പങ്കാളിത്ത പ്രക്രിയ ഉണ്ടായിരുന്നിട്ടും ദീർഘകാലാടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു മെച്ചപ്പെട്ട സാമ്പത്തിക നില ഈ പങ്കാളിത്തത്തിന്റെ മൊത്തത്തിൽ ആധിപത്യം പുലർത്തുന്നു രണ്ടാമത്തേത് കൂടുതൽ പോസിറ്റീവ് ആസ്പെക്ട്ആണ് അവരുടെ വീടുകൾ കൂടുതൽ മനോഹരമാക്കുന്നതിനും സ്ഥലങ്ങൾ കൂടുതൽ ശുചിത്വമുള്ളതാക്കുന്നതിനുമുള്ള വ്യക്തിപരവും കൂട്ടായതുമായ പരിശ്രമങ്ങൾ ഉണ്ടായി അതിനാൽനഗര പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിലൂടെ ആത്മാഭിമാനത്തെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്എന്നാൽ ചുസ്ചിയിലും ക്വിസ്പില്ലക്റ്റയിലുംപങ്കാളിത്തം തുടക്കത്തിൽ വളരെ സജീവമായിരുന്നു എന്നാൽ ആളുകൾ പൊതുവെ അവരുടെ വീടോ ചുറ്റുപാടുകളോ മെച്ചപ്പെടുത്താൻ ഒരു ശ്രമവും നടത്തുന്നില്ല ഇതിന് കാരണം കൈവശാവകാശ പ്രശ്നങ്ങൾ ആവാം പള്ളി കൊത്തിയെടുത്ത കല്ല് പോലെയുള്ള പ്രാദേശിക ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്ന ചിലത് ഒഴികെ ആ പ്രത്യേക പ്രോജക്റ്റിന്റെ project ആത്മാഭിമാനത്തിനായി അവർ സമയവും പരിശ്രമവും ചെലവഴിച്ചു പക്ഷേ അവർക്ക് അത് കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞില്ല അതിനാൽ ഇവിടെയാണ് ആശ്രിതത്വ വശം കൂടുതൽ കാണുന്നത് എന്നിരുന്നാലും സമൂഹത്തെ വികസിപ്പിക്കുന്നതിനുള്ള സാധ്യതയുള്ള എനർജി നിലവിലുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു ചില തെളിവുകൾ ഇവയാണ് അവർക്ക് കുറച്ച് എനർജി ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ അവയെ ശരിയായ രീതിയിൽ നയിക്കേണ്ടതുണ്ട് അതുവഴി അവർക്ക് മനസ്സിലാക്കാനും അതിനായി അവർക്ക് പ്രവർത്തിക്കാനും കഴിയും അതേസമയം സംസ്ഥാന സ്ഥാപനങ്ങൾ ചില ആശ്രിതത്വ വശങ്ങൾ നൽകുകയും ഇത് തീർച്ചയായും ആത്മാഭിമാനത്തെ ബാധിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് സന്ദർഭങ്ങളിലും കണ്ടത് പോലെ ഈ പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ പ്രാധാന്യമർഹിക്കുന്നു മാറ്റം സംഭവിക്കുന്നുണ്ടെന്നു നിങ്ങൾക്കറിയാംനേതൃത്വഗുണങ്ങൾ മാറുകയാണ് ഈ പ്രക്രിയയിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വ്യത്യസ്തമാണ് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പെറുവിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഷോർട് ടെർമ്വീണ്ടെടുക്കൽ പ്രക്രിയയുടെ ലോങ്ങ് ടെർമ്പ്രത്യാഘാതങ്ങൾ എന്താണെന്നും ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു നന്ദി